ഈ എൽഡിഒ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളുടെ എൽഡിഒയിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഈ 2 റെസിസ്റ്ററുകൾ നിങ്ങൾ വാങ്ങുകയും ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഇടുകയും ചെയ്യുന്നു തുടർന്ന് ഇൻപുട്ട് കപ്പാസിറ്ററും ഈ സർക്യൂട്ടിന് പ്രവർത്തിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുന്നു അതിനാൽ പല വിധത്തിലുള്ള എൽഡിഒ കളെക്കുറിച്ച് ഒരു അവലോകനം തരാം നിങ്ങൾ എൽഡിഒ വാങ്ങാൻ താൽപ്പര്യപ്പെടുമ്പോൾ വിഷമിക്കേണ്ടതില്ല ഇതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് ലഭ്യമായ എൽഡിഒകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് എൻ സിമോസ് അല്ലെങ്കിൽ എൻമോസ് എൽഡിഒകളും പിമോസ് എൽഡിഒകളും ലഭിക്കും അതിനാൽ അവ എവിടെയാണ് ഉപയോഗിക്കുന്നത് അവ ഏതൊക്കെ അവസ്ഥകളിലാണ് ഉപയോഗിക്കുന്നത് എന്നത് ഓരോന്നും നിങ്ങൾ ഇൻപുട്ടിനെ സാധാരണ പരിധിയിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ടിൽ Vi 1 5 വോൾട്ട് കൊടുക്കുകയും ഔട്ട്പുട്ടിൽ 1 വോൾട്ട് നിയന്ത്രിക്കുകയും ചെയ്യാം അത് ഒരു എൻ മോസ് എൽഡിഒ ആയിരിക്കണം എന്ന് ഉറപ്പാക്കുക കാരണം അതാണ് ആത്യന്തികമായി ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഓഫറുകൾ നൽകുന്ന മിക്ക കമ്പനികളും യഥാർത്ഥത്തിൽ ഒരു സാങ്കേതികവിദ്യയായി ഇത് ഉപയോഗിക്കും നിങ്ങൾക്ക് 1 വോൾട്ടിൽ ഈ 1 ആമ്പിനെ നൽകാം അതിനാൽ നിങ്ങൾക്ക് 1 വാട്ട് നഷ്ടപ്പെടും പക്ഷേ ഡ്രോപ്പ് ഔട്ട് വ്യത്യാസം 0 5 വോൾട്ട് മാത്രമാണ് ഇത് 1 ആമ്പിയറാണെങ്കിൽ നിങ്ങൾക്ക് 500 മില്ലി വാട്ട് നഷ്ടം മാത്രമേയുള്ളൂ നിങ്ങൾക്ക് ഒരു വലിയ ഹീറ്റ് സിങ്കിന്റെ ആവശ്യമില്ല ഇൻപുട്ടിനും വലിയ ഹീറ്റ് സിങ്കിന്റെ ആവശ്യമില്ല അതിനാൽ ഈ രീതിയിൽ I P I O എന്നിവ നൽകുക നിങ്ങൾ 0 5 വോൾട്ട് മാത്രം ഡ്രോപ്പ് ചെയ്യുന്നു 1 ആമ്പിയർ തുടർച്ചയായി എടുക്കുന്നു ഇത് ഏകദേശം 500 മില്ലി വാട്ട് ആണ് അതിനാൽ സാധാരണ നിങ്ങൾക്ക് വിപണിയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു എൻ മോസ് ആണ് ഇത് മറുവശത്ത് പി മോസിന് ഇത്തരത്തിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണികൾ ആയിരിക്കില്ല അത് വളരെ ഉയർന്നതായിരിക്കാം ഇൻപുട്ടായി 3 മുതൽ 36 വോൾട്ട് വരെ എടുക്കാം ഔട്ട്പുട്ടും ക്രമീകരിക്കാനാകും നിങ്ങൾക്ക് ഇത് 12 വോൾട്ടുകളായി ക്രമീകരിക്കാൻ കഴിയും ഇതാണ് ഒരു രൂപരേഖ എങ്കിൽ ഇത് ഒരു പിമോസ് അടിസ്ഥാനമാക്കിയുള്ള എൽഡിഒ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സീരീസ് പാസ് ഘടകം ഒന്നുകിൽ ഒരു എൻ മോസ്ഫെറ്റ് എൻ ചാനൽ മോസ്ഫെറ്റ്അല്ലെങ്കിൽ ഒരു പിമോസ് പി ചാനൽ പി മോസ്ഫെറ്റ് ആണെന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ നോക്കുന്ന ചിത്രം ഇവിടെ വീണ്ടും വരയ്ക്കട്ടെ ഇതാണ് ഒരു എൻ മോസ് എൻ മോസ്ഫെറ്റ് സീരീസ് എലമെൻറ് അതിനാൽ എൻ മോസ് സീരീസ് എലമെൻറിൽ നിങ്ങൾ എന്തുചെയ്യും വി ഐ സാധാരണയായി ഡ്രെയിനിലേക്ക് വി ഡി ഡി യിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അത് സോഴ്സിൽ നിന്ന് എടുത്ത ഔട്ട്പുട്ട് ആണ് കൂടാതെ ഗേറ്റ് യഥാർത്ഥത്തിൽ സിസ്റ്റം നിയന്ത്രണത്തിൽ നിലനിർത്തുന്നതിനായി ഈ സിസ്റ്റം പ്രധാനമായും നയിക്കുന്ന എറർ ആംപ്ലിഫയർ ഔട്ട്പുട്ട്ആണ് അതിനാൽ നിങ്ങൾ ഒരു എൻചാനൽ എൻ മോസ് NMOS അല്ലെങ്കിൽ എൻ ചാനൽ എൻ മോസ്ഫെറ്റ് സീരീസ് പാസ് ഘടകത്തിൽ ചെയ്യുന്നത് ഇതാണ് ഇത് പി മോസ് ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് ചെയ്ത് അതിനനുസരിച്ച് സർക്യൂട്ട് നിർമ്മിക്കുക അതിനാൽ സീരീസ് പാസ് എലമെൻറ് എന്തായാലും സർക്യൂട്ട് അതേപടി നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിസൈനർക്ക് ബാഹ്യ കാഴ്ചക്കാരന് അത് സമാനമായി തുടരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളും സമാനമാണ് അതിനാൽ ഇത് എൻ മോസ് അല്ലെങ്കിൽ പി മോസ് ആണോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾ ഇത് ശരിയായി മനസ്സിൽ സൂക്ഷിക്കണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പരാമർശിക്കുന്ന ഈ ചെറിയ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണംഞാൻ ചർച്ച ചെയ്യാത്ത നോഡ് റപ്ചേഴ്സ് ആ ഭാഗവും വേഗത്തിൽ വിശദീകരിക്കാം ഈ കോഴ്സിലെ നിരവധി കാര്യങ്ങൾ ബന്ധിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അതിനാൽ ഞാൻ വീണ്ടും വരയ്ക്കാം ഈ എൻ ചാനൽ സീരീസ് പാസ് എലമെന്റ് അല്ലെങ്കിൽ എൻ മോസ്ഫെറ്റ് അടിസ്ഥാനമാക്കിയുള്ള എൽഡിഒ ഇന്റേണൽ സർക്യൂട്രി വീണ്ടും വരയ്ക്കട്ടെ അതിനാൽ ഞാൻ ഒരു പുതിയ ഷീറ്റ് എടുക്കും നമ്മൾ ഇവിടെ നിന്ന് വളരെ നന്നായി വരയ്ക്കും ഞാൻ ഈ ഗേറ്റ് എടുക്കുന്നു ഇത് ഒരു എൻ മോസ് എൻ ചാനൽ മോസ്ഫെറ്റ് ആണ് ഇത് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ ഇത് ഡ്രെയിനും ഇത് സോഴ്സും ഇത് ഗേറ്റും ഞാൻ ചെയ്യുന്നത് എനിക്ക് ഫീഡ്ബാക്ക് നൽകേണ്ടതുണ്ട് അതിനാൽ ഇതാണ് ആർ1 ഇതാണ് ആർ2 ഞാൻ ആഗ്രഹിക്കുന്ന പോയിന്റാണ് ഇത് ഞാൻ ഇത് എറർ ആംപ്ലിഫയറുമായി ബന്ധിപ്പിക്കും അതിലേക്ക് വി റെഫ്ബന്ധിപ്പിച്ചിരിക്കുന്നു ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ ഗേറ്റിനെ നയിക്കുന്നു ഈ പോയിന്റ് വി ഔട്ട് എന്താണ് ഈ പോയിന്റ് വി ഐ ഇത് വി റെഫ് ആണ് ഇത് ചെയ്യുന്നത് വളരെ ലളിതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ഥിരത കപ്പാസിറ്റർ ചേർക്കാതെ സ്ഥിരത നോക്കാതെ നിങ്ങൾക്ക് വി ഔട്ട് എടുക്കാനാവില്ലെന്ന് വ്യക്തമാണ് ഇത് വളരെ നിർണായകമാണ് തുടർന്ന് നിങ്ങൾക്ക് ലോഡ് ഉണ്ട് ഇതാണ് ഇത് സി ഔട്ട് നമുക്ക് ഒരു ഇൻപുട്ട് കപ്പാസിറ്റർ സി ഐ ആവശ്യമാണെന്നും ഇത് സി ഔട്ട് ആണെന്നും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് ഈ വോൾട്ടേജ് ലൂപ്പിന് സ്ഥിരത നൽകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു കപ്പാസിറ്ററുകൾക്ക് തുല്യമായ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പാരസിറ്റിക് റെസിസ്റ്റർസീരീസിലും ഒരു റെസിസ്റ്റർ പാരലലിലും ഇടും ഇത് ഒരു കപ്പാസിറ്ററാണ് ഇതാണ് സീരീസ് പാരലൽ 2പാരാസിറ്റിക് റെസിസ്റ്ററുകൾ നിങ്ങൾ അവയെ കാണില്ല പക്ഷേ ഈ കപ്പാസിറ്ററിന്റെ പ്രവർത്തനത്തെ അവ സ്വാധീനിക്കുന്നു ഈ കപ്പാസിറ്ററിന്റെ സംഭരണത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക എന്നതാണ് സീരീസ് റെസിസ്റ്ററിന്റെപ്രഭാവം ഈ സമാന്തര റെസിസ്റ്റർ ചോർച്ച ഉണ്ടാക്കുന്നു ഈ സമാന്തര റെസിസ്റ്ററുകളുടെ പ്രശ്നം സംഭരണ കാര്യക്ഷമതയുടെ കാര്യത്തിലെ പ്രശ്നമാണ് കാരണം ഈ റെസിസ്റ്റർ സ്വയം വോൾട്ടേജ് എടുക്കുകയും എന്നാൽ ചാർജ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുകയുമില്ല അതിനാൽ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന നിരക്കാണ് സീരീസ് റെസിസ്റ്ററിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് ഇത് അടിസ്ഥാനപരമായി കപ്പാസിറ്ററിലെ ഒരു പാരാസൈറ്റാണ് അതിനാൽ ഇത് ചാർജ് ചെയ്യുന്നതുമായി ബന്ധമുണ്ട് മാത്രമല്ല ഇത് ചാർജ് ചെയ്യുന്നതിന്റെ കാര്യക്ഷമത സംഭരണത്തേക്കാൾ കൂടുതൽ പ്രധാനമാണ് പിന്നീട് ചോർച്ചയും പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഇവിടെ വി ഔട്ടിൽ ഒരു നിയന്ത്രണം നടത്താൻ ശ്രമിക്കുകയാണ് ഉയർന്ന സീരീസ് റെസിസ്റ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് ഒരു പ്രശ്നമുണ്ടാക്കും കാരണം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല വി ഔട്ട് കൃത്യമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു ആ സവിശേഷതകളെല്ലാം നൽകി അത് യഥാർത്ഥത്തിൽ ആ സവിശേഷതകൾ പാലിക്കണം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് മറ്റെന്താണ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം അതിനാൽ പ്രധാനമായും നിങ്ങൾ പറയുന്നത് ഈ സി ഔട്ട് റെസിസ്റ്റർ പ്രധാനമാണ് അതിനാൽ നമുക്ക് ഈ എൻ മോസ് സി മോസ് ചർച്ച സീരീസ് പാസ് എലമെന്റ് ചർച്ചയുമായി മുന്നോട്ട് പോകാം ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നതിനെ ആശ്രയിച്ച് ചില സമയങ്ങളിൽ ഒരു എൻമോസ് സീരീസ് പാസ് ഘടകത്തിന് ഇത് ആവശ്യമാണെന്ന് കാണുക ഈ ഗേറ്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എങ്ങനെയായിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഗേറ്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം Vout ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലായ്പ്പോഴും എൽഡിഒയുടെ Vi ഇൻപുട്ടിനേക്കാൾ കുറവാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വി ഔട്ടിനെക്കാൾ കൂടിയ ഒരു ഗേറ്റ് വോൾട്ടേജ് VG ആവശ്യമാണ് നിങ്ങൾ എങ്ങനെ സാഹചര്യം സൃഷ്ടിക്കുന്നു എങ്ങനെ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തുവരും സാധാരണഗതിയിൽ അവ ചാർജ് പമ്പോ ബാഹ്യമായ വി ബയാസോ ഉപയോഗിക്കുന്നു അങ്ങനെ ഈ എൻ മോസ് സീരീസ് പാസ് ഘടകം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഞാൻ ഈ ഉയർന്ന വോൾട്ടേജ് നൽകേണ്ടതുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല കാരണം ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു എൽഡിഒ ചിപ്പിനുള്ളിൽ നടപ്പിലാക്കുന്നു എന്നിരുന്നാലും ചില ലോഡിംഗ് സാഹചര്യങ്ങളിൽ ഗേറ്റ് വോൾട്ടേജ് സോഴ്സിനേക്കാൾ ഉയർന്നതായി നൽകേണ്ട സാഹചര്യം ഉണ്ടാകാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഘട്ടം ഘട്ടമായി പോകാം ലോഡിംഗ് അവസ്ഥകൾ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നുവെന്ന് മനസിലാക്കുകയും ഈ എൽഡിഒ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് നോക്കാം അതിനായി ഞാൻ x അക്ഷത്തിൽ VDS വരയ്ക്കും ഞാൻ VDS വരയ്ക്കും എന്താണ് VDS അത് VDS Vi Vout Y അക്ഷത്തിൽ ഞാൻ ലോഡ് കറന്റ് വരയ്ക്കും അതായത് ഡ്രെയിൻ കറന്റ് പക്ഷേ ഡ്രെയിൻ കറന്റ് അല്ലെങ്കിൽ ലോഡ് കറന്റ് അതിനാൽ നിങ്ങൾ എന്ത് കാണിക്കും ഞാൻ സാച്ചുറേഷൻ ലൈൻ കാണിക്കും ഇതാണ് സാച്ചുറേഷൻ ലൈൻ നിങ്ങൾക്ക് 5 വോൾട്ടുകളുടെ വി ഐ 3 3 ന്റെ വി ഔട്ട് എന്നിവയിൽ താൽപ്പര്യമുണ്ടെന്ന് കരുതുക 5 വോൾട്ട് ഇൻപുട്ട് 3 3 ലോഡ് കറന്റുമാണ് 500 മില്ലിയാംപിയർ പരമാവധി ഐ ഔട്ടാണ് വ്യക്തമായും ഇത് ഒരു പ്രശ്നമുണ്ടാക്കാൻ പോകുന്നു ഈ ലോഡിന് എടുക്കാൻ കഴിയുന്ന പരമാവധി കറന്റ് 500 മില്ലിയാംപിയർ ആയിരിക്കും തീർച്ചയായും ഇത് ഈ ലോഡിനെ ആശ്രയിച്ചിരിക്കും എല്ലായ്പ്പോഴും ഇത് വ്യത്യാസപ്പെടുന്ന ലോഡാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മൈക്രോകൺട്രോളർ സെൻസറും അതിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാ അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടായിരിക്കാം അതിനാൽ ഇത് വളരെ ഉയർന്ന വൈദ്യുതധാര എടുക്കുന്നുണ്ടാകാം ചിലപ്പോൾ മൈക്രോകൺട്രോളർ മാത്രമേ ഓൺ ആയിരിക്കുകയുളളൂ മറ്റെല്ലാ പെരിഫെറലുകളും ഡൌൺ ആകും അങ്ങനെ എങ്കിൽ കറന്റ് താഴേക്ക് പോകാം അതിനാൽ ഇത് ഒരു ചലനാത്മക സാഹചര്യമാണ് അതിനർത്ഥം ഈ ആർഎൽ ഒരിക്കലും സ്ഥായി അല്ലെന്നും ഇത് എല്ലായ്പ്പോഴും സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ആണ് ലോഡ് എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്നത് പരിഗണിക്കാതെ തന്നെ സിസ്റ്റം നിയന്ത്രണത്തിൽ നിലനിർത്തുന്നു എന്ന് ഈ റെഗുലേറ്റർ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ആ പോയിന്റ് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് 0 5 ആണെന്ന് പറയാം ഇത് 1 വോൾട്ട് ഇത് 1 5 വോൾട്ട് ഇത് 2 വോൾട്ട് ആണ് ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വോൾട്ടേജ് അതിനാൽ VDS Vi Vout വി ഡി എസ് വി ഐ വി ഔട്ട് അത് ഡ്രോപ്പ് വോൾട്ടേജ് ആണ് സീരീസ് ഘടകത്തിലുടനീളം ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജ് വി ഐ 5 ആണെങ്കിൽ വി ഔട്ട് 3 3 ആണെങ്കിൽ ഇത് വളരെ ലളിതമാണ് അതിനാൽ Vds വി ഐ വി ഔട്ട് 1 ഇപ്പോൾ നമുക്ക് ഡ്രെയിൻ കറന്റ് എടുക്കാം 0 5 ആമ്പിയർ എന്ന് പറയാം ഇത് പരമാവധി ലോഡ് കറന്റ് പോയിന്റാണ് അതിനാൽ 1 7 ഇവിടെ വരുന്നതുപോലുള്ള ഒരു രേഖ വരയ്ക്കാം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഈ കാര്യം അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാഹചര്യം ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് 1 7 ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ 1 7 ഡ്രോപ്പ് ആണ് 500 മില്ലീയമ്പിയർ പരമാവധി കറന്റും ഈ ഘട്ടത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഘട്ടത്തിൽ നിലനിൽക്കാനുള്ള വിജിഎസ് എന്താണ് എന്നാണ് വിജിഎസിന് 3 വോൾട്ട് ഉണ്ട് നിങ്ങൾ ഗേറ്റിനും സോഴ്സിനും ഇടയിൽ വിജിഎസ് 3 വോൾട്ട് നൽകിയാൽ ഈ സിസ്റ്റം നിങ്ങൾക്ക് വിഡിഎസിലുടനീളം 1 7 വോൾട്ട് ഡ്രോപ്പ് നൽകും എനിക്ക് ഒരു കറന്റ് നൽകാൻ കഴിയും 3 വോൾട്ടിൽ ഇതിനെ നമുക്ക് ഒരു പോയിന്റ് എന്ന് വിളിക്കാം നമുക്ക് എക്സ് x അല്ലെങ്കിൽ ഇവിടെ ചില പോയിന്റ് എന്ന് പറയാം ഇപ്പോൾ ലോഡ് കറന്റ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം എടുക്കുക അത് 0 7 ആമ്പിയറിലേക്ക് പോകുന്നുവെന്ന് കരുതുക വ്യക്തതയ്ക്കായി ഞാൻ ഇത് വീണ്ടും വരയ്ക്കാം ചിത്രത്തിൽ 0 5 ആണെന്ന് നിങ്ങൾ നന്നായി കാണും അത് 0 7 ലേയ്ക്ക് പോകുന്നുവെന്ന് കരുതൂ അത് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ പ്രധാനമായും നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് ഇവിടെ ലോഡ് കറന്റ് മാത്രമാണ് വർദ്ധിച്ചത് നിങ്ങൾ ഒരേ വോൾട്ടേജ് ഡ്രോപ്പ് നിലനിർത്തുന്നത് തുടരേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ വിജിഎസിനെ 3 5 വോൾട്ടായി ഉയർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കത് തിരികെ നിയന്ത്രണത്തിലേക്ക് ലഭിക്കില്ല അതിനാൽ നിങ്ങൾ വിജിഎസ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ആവശ്യമായ ലോഡ് കറൻറ് സോഴ്സിംഗ് സാധ്യമാകില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇവിടെ പ്രധാനപ്പെട്ടത് ചില കാരണങ്ങളാൽ 500 മില്ലിയാംപിയർ ആണ് പരമാവധി എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ ചില ക്ഷണികമായ അവസ്ഥയ്ക്ക് ഇതും എടുത്തിരിക്കാം ഞാനിവിടെ മാക്സ് എന്നുള്ളത് മാറ്റുന്നു അതിനാൽ നമ്മൾ ഇവിടെ ഈ ചർച്ചാ പോയിന്റ് ലംഘിക്കുന്നില്ല അതിനാൽ ഇത് പോയിന്റ് വൈ y ആണെന്ന് പറയാം അതിനാൽ ഇവിടെ നിങ്ങൾ അധിക വിജിഎസ് നൽകണം അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ നീങ്ങുന്നു അതിനാൽ വിഡിഎസിലുടനീളം ഈ വോൾട്ടേജ് ഡ്രോപ്പ് നിങ്ങൾ ലംഘിച്ചുവെന്ന് ശ്രദ്ധാപൂർവ്വം നോക്കുക പക്ഷേ ആവശ്യമുള്ള 1 7 ൽ നിങ്ങൾ അത് സൂക്ഷിക്കുന്നത് തുടരുന്നു ഇൻപുട്ട് കുറയുന്ന ഒരു കേസ് എടുക്കുക ഇൻപുട്ട് ഗ്രാഫിക്കലായി കുറയുകയാണെങ്കിൽ ഇൻപുട്ട് കുറയുന്നുവെങ്കിൽ നിങ്ങൾ ഈ പോയിൻറ് സാച്ചുറേഷനിൽ നിലനിർത്താൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ മാറുന്ന അവസ്ഥയിൽ ഒരു പോയിൻറ് റെഗുലേഷനിൽ നിലനിർത്താൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ Vi നിങ്ങൾക്ക് ഈ പോയിൻറ് നിയന്ത്രണത്തിൽ നിലനിർത്താൻ താൽപ്പര്യമുണ്ട് നിങ്ങൾ ഈ ഡ്രോപ്പ് കുറയ്ക്കുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല ഈ ഡ്രോപ്പ് നിങ്ങൾ കുറച്ചില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വി ഔട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല അതിനാൽ വിജിഎസിന്റെ ലൈൻ ഒന്ന് തന്നെ ആണ് പോയിന്റ് മാത്രം പിന്നോട്ട് നീങ്ങി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഡ്രോപ്പ് വിഡിഎസ് കുറയുന്ന ദിശയിലേക്ക് പോയി ഈ പോയിന്റിനെ സെഡ് z എന്ന് വിളിക്കാം അതിനാൽ ഈ എൽഡിഒ എക്സിൽ x ൽ നിന്ന് y വൈയിലേക്ക് z സെഡിലേക്ക് നീങ്ങുന്നു അങ്ങനെ വി ഐ യിലെ മാറ്റം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലോഡ് അവസ്ഥയിലെ മാറ്റം കാരണം ഏതെങ്കിലും അവസ്ഥയിലെ മാറ്റം എന്നിവ അടിസ്ഥാനമാക്കി നമുക്ക് ലളിതമായ ഓംസ് നിയമം ചെയ്ത് ലളിതമായ ഒരു ആശയം ഇവിടെ പ്രദർശിപ്പിക്കാനും കഴിയും അത് മുഴുവൻ ചർച്ചയും നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഡ്രോപ്പ് 5 വോൾട്ട് ഇൻപുട്ടിൽ ആണെങ്കിൽ വി ഔട്ട് 3 3 ആണെന്ന് നിങ്ങൾ കാണും അതിനാൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ആർ കണക്കാക്കണമെങ്കിൽ ഇത് 5 വോൾട്ട് മൈനസ് ആയിരിക്കും അതിനാൽ ഞാൻ ഇവിടെ എഴുതട്ടെ റെസിസ്റ്റൻസ് ആർ കണക്കാക്കാം ചില കാരണങ്ങളാൽ ഞാൻ ആർ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് 5 വോൾട്ട് മൈനസ് 3 3 പരമാവധി 0 5 ആമ്പിയർ ലോഡ് കറന്റ് നിങ്ങൾക്ക് 3 4 ഓംസ് നൽകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര മൂല്യങ്ങളും പകരം വയ്ക്കാം അതിനർത്ഥം ഈ സീരീസ് പാസിന് 3 4 ഓംസ് റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ്

മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇത് ഒരു സ്ഥിരമായ 3 4 ഓംസ് ലോഡ് റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണെന്ന് സാങ്കൽപ്പികമായി കരുതുക നിങ്ങൾക്ക് 5 വോൾട്ട് വി ഐ നൽകാം കൂടാതെ പരമാവധി ലോഡ്കറന്റ് 0 5 ആമ്പിയറിനൊപ്പം 3 3 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാം

ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ലാത്തതിനാലും ലോഡ് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാലും നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസ് എല്ലായ്പ്പോഴും ശരിയായി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം മാത്രമേ ആവശ്യമുള്ളൂ

ഇത് സോഴ്സ് ആണ് ഇത് ഒരു മോസ്ഫെറ്റിന്റെ ഡ്രെയിൻ ആണ് ഈ മാറ്റം നിങ്ങൾ നൽകുന്ന ഗേറ്റ് വോൾട്ടേജാണ് ലളിതമായി പറഞ്ഞാൽ ഡ്രെയിനും സോഴ്സും തമ്മിലുള്ള റസിസ്റ്റൻസ് നിങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എൽഡിഒയെ ലളിതമായി കൈകാര്യം ചെയ്യുന്നു കൺട്രോൾ ലൂപ്പ് ആർഡിഎസിന്റെ സീരീസ് ഘടകങ്ങളെ കൈകാര്യം ചെയ്യുന്നു ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അതിനാൽ എൻ മോസ് എൻ ചാനൽ മോസ്ഫെറ്റിന് സാധാരണയായി ആർഡിഎസ് വളരെ കുറവാണ് നിങ്ങൾക്ക് ഒന്നിൽ താഴെ മാത്രം വേണം 0 5 ഓം 0 1 ഓം മറ്റും എത്ര കുറവാണോ അത്രയും നല്ലത് ഉപകരണത്തിൽ ഉടനീളം വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം കറന്റ് കൈമാറാൻ കഴിയും ഒരു വലിയ അളവിലുള്ള ലോഡ് കറന്റ് നൽകാൻ കഴിയും അതുകൊണ്ടാണ് അതിന്റെ പ്രതികരണം വളരെ നല്ലതാവുന്നത് നമ്മുടെ മുമ്പത്തെ ചർച്ചകളിൽ ഒരു എൽഡിഒയുടെ ചലനാത്മക പ്രതികരണത്തെ നമ്മൾ വിവരിച്ചിരുന്നു അതിനാൽ എൻ മോസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പി മോസ് അല്ലെങ്കിൽ പി ചാനൽ മോസ്ഫെറ്റിന് ആർഡിഎസ് വളരെ ഉയർന്നതാണ് ഓരോ നിർമ്മാതാക്കളും വ്യത്യസ്ത മൂല്യങ്ങൾ പറയുന്നതിനാൽ ഞാൻ നമ്പറുകളൊന്നും നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പ്രധാനമായും നിങ്ങൾ സാങ്കേതികവിദ്യയ്ക്കായുള്ള ഈ നിയന്ത്രണ ലൂപ്പ് ഉപയോഗിച്ചാണ് പ്രധാനമായും ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ഡ്രെയിനും സോഴ്സും തമ്മിലുള്ള റെസിസ്റ്റൻസ് വളരെ ഫലപ്രദമായി വ്യത്യാസപ്പെടുത്തുക അങ്ങനെയാണ് റെഗുലേറ്ററിന് സ്വയം നിലനിർത്താൻ കഴിയുന്നത് നമുക്ക് ആവശ്യമായ സഹായം ശരിയായി നൽകാൻ കഴിയുന്നത് അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണിത് വൈദ്യുതി നഷ്ടത്തിന് നമുക്ക് വളരെ ലളിതമായ സമവാക്യങ്ങൾ എഴുതാം വൈദ്യുതി ഔട്ട്പുട്ട് P V I Vout Iout നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഇൻപുട്ട് പവറും പ്രധാനമാണ് പക്ഷേ ഇത് വളരെ ലളിതമാണ് ഇത് Vi Ii ആണ് എൽഡിഒയുടെ വൈദ്യുതി നഷ്ടം പ്രധാനമാണ് ഇത് PLDO Iout പി എൽ ഡി ഒ വി ഐ വി ഔട്ട് ഐ ഔട്ട് ഐ ഔട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഡ്രെയിൻ കറന്റ് ആണ് എൽഡിഒ പ്രവർത്തിക്കുന്നതിന് കുറച്ച് കറന്റ് നിശബ്ദമായി ക്വിസ്ന്റ് കറന്റ് ഉപയോഗിക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക അതിനാൽ ക്വിസ്ന്റ് കറന്റും ചേർക്കണം PLDO Iout Iq പി എൽ ഡി ഒ വി ഐ വി ഔട്ട് ഐ ഔട്ട് ഐ ക്യൂ ക്വിസ്ന്റ് കറന്റ് വളരെ ചെറുതായതിനാൽ നിങ്ങൾക്ക് ഒരു എൽഡിഒയുടെ വൈദ്യുതി നഷ്ടം ഏകദേശം കണക്കാക്കാം PLDO Iout പി എൽ ഡി ഒ വി ഐ വി ഔട്ട് ഐ ഔട്ട് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീം ആണ് നിങ്ങൾ ഇവിടെ കാണുന്ന ചർച്ച പൂർത്തിയാക്കാൻ പോകുന്നു ഒരു എൻ ചാനൽ മോസ്ഫെറ്റിന്റെ റെഗുലേറ്റർ റെഗുലേഷൻ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് നമ്മൾ ഗേറ്റിൽ ചിലപ്പോൾ ഉയർന്ന വോൾട്ടേജ് നൽകേണ്ടതുണ്ട് ചാർജ് പമ്പുകൾ ഉപയോഗിച്ചാണ് ഇത് സാധാരണ ചെയ്യുന്നത് അത് എൽഡിഒയ്ക്കുള്ളിൽ ഉള്ള മറ്റൊരു തരം ഉപകരണങ്ങളാണ് എന്നാൽ നിങ്ങൾക്ക് അവ പുറത്തും വാങ്ങാൻ കഴിയും അടിസ്ഥാനപരമായി അത് ഒരു വോൾട്ടേജ് മൾട്ടിപ്ളയർ ആണ് തുടർന്നുള്ള സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കായി ഇവ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ കാണും നിങ്ങൾ ഒരു ഡാറ്റ ഷീറ്റ് നോക്കുകയും ഒരു എൽഡിഒയുടെ നിരവധി പാരാമീറ്ററുകൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ എൽഡിഒയ്ക്കായി ചില പ്രധാന പാരാമീറ്ററുകൾ നമുക്ക് നൽകാം കൂടാതെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണം നടത്താൻ കഴിയുമോ എന്നും നോക്കാം പരീക്ഷണം നന്നായി മനസിലാക്കുകയും പിന്നീട് തിരിച്ചുവന്ന് ആ പരീക്ഷണത്തിന് പിന്നിൽ ആ സിദ്ധാന്തം വയ്ക്കുകയും തുടർന്ന് എൽഡിഒയെക്കുറിച്ചുള്ള എല്ലാം സംഗ്രഹിക്കുകയും ചെയ്യുക ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു